IIoT ക്കായുള്ള കണക്റ്റിവിറ്റി സ്വീകരിക്കുന്നതും അടിസ്ഥാനപരമായി ട്രാൻസ്മിറ്ററിൽ നിന്ന് അയച്ച വിവരങ്ങൾ കാണിക്കുന്നതും ഞാൻ കാണിച്ചുതരാൻ പോകുന്നു സിഗ്ബീ കണക്റ്റിവിറ്റി ഭാഷ ഉപയോഗിച്ച് 2 Xbee മൊഡ്യൂളുകൾ തമ്മിലുള്ള അടിസ്ഥാന ആശയവിനിമയം അവതരിപ്പിക്കാൻ പോകുന്നു ഒരു പുനരവലോകനം മിഡ് റേഞ്ച് ആപ്ലിക്കേഷനുകൾക്കായി വ്യാപകമായി ഉപയോഗിക്കുന്നു ZigBee യിലെ ആശയവിനിമയ ശ്രേണി 10 മുതൽ 100 മീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു റിസീവറും പരസ്പരം കാഴ്ചയുടെ വരിയിലാണെങ്കിൽ അത് കൂടുതൽ മാറുന്നു ഒരു ZigBee മൊഡ്യൂൾ വഴി വിവരങ്ങളുടെ കൈമാറ്റം ചെയ്യലും നടത്തുന്നില്ല Zigbee പിന്തുണയ്ക്കുന്ന 3 വ്യത്യസ്ത തരം ഉപകരണങ്ങളാണ് ഇവ ZigBee യും Xbee യും ഈ പദങ്ങൾ പരസ്പരം ഉപയോഗിക്കാറുണ്ടെങ്കിലും അവ വ്യത്യസ്തമാണ് IEEE 802 4 സ്റ്റാൻഡേർഡ് സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മെഷ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് അടിസ്ഥാനപരമായി Xbee പിന്തുണയ്ക്കുന്നു ഇതിന് Zigbee ക്ക് സമാനമായ ചില സവിശേഷതകൾ ഉണ്ട് എന്നാൽ ചില അധിക അഭിലഷണീയമായ സവിശേഷതകളും അവയുടെ Digi mesh ആണ് ഇവ മുൻവ്യവസ്ഥകളാണ് തുടക്കത്തിൽ നിങ്ങൾ Xbee ലൈബ്രറി നടത്തുന്നതിന് മുമ്പ് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് Xbee മൊഡ്യൂളുകൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ക്രമീകരിക്കാൻ XCTU ഉപയോഗിക്കും അതായത് ZigBee കേന്ദ്രവും ട്രാൻസ്മിറ്ററുകളും ഉപയോഗിക്കാൻ കഴിയും കോൺഫിഗറേഷനായി ക്ലിക്കുചെയ്യുക അടിസ്ഥാനപരമായി നിങ്ങൾ അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഉപകരണങ്ങൾ ചേർക്കാനും ഉപകരണങ്ങൾ കണ്ടെത്താനും കഴിയും ഉപകരണങ്ങൾ ചേർക്കുന്നതിന് ഇതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബട്ടൺ ഇത് കണ്ടെത്തുന്നതിന് അടിസ്ഥാനപരമായി നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ബട്ടൺ ഇതാണ് നിങ്ങൾ ഈ പ്രത്യേക ബട്ടണിൽ ക്ലിക്കുചെയ്തുകഴിഞ്ഞാൽ അത് വ്യത്യസ്ത മൊഡ്യൂളുകൾ കണ്ടെത്തി ഈ മൊഡ്യൂൾ കണ്ടെത്തിയതാണ് ഈ കണ്ടെത്തൽ പ്രക്രിയയിലൂടെ കണ്ടെത്താൻ കഴിയുന്ന മറ്റ് നിരവധി മൊഡ്യൂളുകൾ ഉണ്ടാകാം ഈ ഉപകരണങ്ങൾ കണ്ടെത്തിയതിനുശേഷം പോർട്ട് ഐഡി ചെയ്യേണ്ടിവരും ഇവിടെ പേരുകൾ നോഡ് 1 നോഡ് 3 എന്നിവയാണ് എന്നാൽ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ ഈ ഉപകരണങ്ങളുടെ പേരുകൾ മാറ്റാം ട്രാൻസ്മിറ്റർ പ്രോഗ്രാമിനായി ആശയവിനിമയ രീതിയാണ് ലക്ഷ്യം ഇത് റിസീവർ സൈഡ് പ്രോഗ്രാം വായിക്കുന്നതിനും കാത്തിരിക്കുന്നു ഇത് അടിസ്ഥാനപരമായി ഈ ബ്ലോക്കാണ് ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം തുടർന്ന് റിസീവറിൽ സൂചിപ്പിക്കുന്നു നമുക്ക് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഇത് അടിസ്ഥാനപരമായി ഈ സന്ദേശമാണ് അത് റിസീവർ അറ്റത്ത് സ്വീകരിക്കുന്നു ഈ പ്രത്യേക പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി ZigBee യുടെ കോൺഫിഗറേഷനും ഞാൻ കാണിച്ചുതരാൻ പോകുന്നു ഞാൻ അത് പ്രവർത്തനത്തിൽ കാണിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ നമുക്ക് ഈ രണ്ട് സിഗ്ബീ മൊഡ്യൂളുകൾ ഉണ്ട് ഇത് ഒരു ട്രാൻസ്മിറ്റർ ഒരു ZigBee മൊഡ്യൂളാണ്ലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് ട്രാൻസ്മിറ്റർ മൊഡ്യൂൾ ഈ ആശയവിനിമയം എങ്ങനെ നടക്കുന്നുവെന്ന് നമ്മൾ കാണിക്കും അതിന് ആവശ്യമായ കോഡ് നമ്മൾ ഇതിനകം എഴുതിയിട്ടുണ്ട് എന്നാൽ അതിനുമുമ്പ് ഈ XCTU കോൺഫിഗറേഷൻ വിൻഡോകൾ ഞാൻ കാണിച്ചുതരാം ഇത് അടിസ്ഥാനപരമായി ഈ XCTU കോൺഫിഗറേഷൻ വിൻഡോയാണ് ചെയ്യാവുന്നതാണ് അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ കൈമാറാനും തുടർന്ന് അത് സ്വീകരിക്കാനും കഴിയും ഇത് പൈത്തണിലെയാണ് നമുക്ക് ഇത് ഇവിടെ നിർവ്വഹിക്കാം അതിനുശേഷം നമുക്ക് മറ്റൊരു കോഡിലേക്ക് പോകാം അത് അയച്ചയാൾ x b dot pi ആണ് ഇതാണ് ഇവിടെയുള്ള മറ്റൊരു കോഡ് നമ്മൾ ഡിജി മെഷ് ലൈബ്രറി പോകുന്നു അത് റിസീവർreceiver നിന്ന് നമുക്ക് ഇത് സ്വീകരിക്കാൻ കഴിയും നിങ്ങൾക്കത് സ്വയം പരീക്ഷിച്ചുനോക്കാവുന്നതാണ് കാര്യങ്ങൾ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം ഇത് വളരെ ലളിതമാണ് കൂടാതെ ZigBee പ്രോഗ്രാമിംഗിനെയും കാണിച്ച ഈ പ്രത്യേക സജ്ജീകരണം നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്ക് കടന്നുപോകാൻ കഴിയുന്ന റഫറൻസസ് ശരിയായി സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക കാരണം അതാണ് ZigBee ആശയവിനിമയത്തിനുള്ള അടിസ്ഥാന നിർമാണ ഘടകം